ഹലോ എല്ലാവർക്കും ആഴ്ച 8 ലേക്ക് സ്വാഗതം മുമ്പത്തെ 4 ആഴ്ചയിൽ നമ്മൾ വ്യത്യസ്ത തരം വൈദ്യുതി ഉൽപാദിപ്പിക്കുന്ന ചക്രങ്ങൾ പറ്റി സംസാരിച്ചു ഞങ്ങൾ സംസാരിച്ച നാലാമത്തെ മൊഡ്യൂളിലെന്നപോലെ ഗ്യാസ് പവർ സൈക്കിളുകൾ അവ പരസ്പര സഹകരണത്തിനുള്ള ഓപ്പറേറ്റിംഗ് സൈക്കിളുകൾ അല്ലെങ്കിൽ ഡ്രൈവിംഗ് സൈക്കിളുകളാണ് ആന്തരിക ജ്വലന എഞ്ചിനുകൾ ടൈപ്പു ചെയ്യുക അതേസമയം കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കുള്ളിൽ നമ്മൾ സംസാരിച്ചു റോട്ടറി തരം ബാഹ്യ ജ്വലന എഞ്ചിനുകൾക്കും നീരാവി ശക്തിക്കും വേണ്ടിയുള്ള ഗ്യാസ് പവർ സൈക്കിൾ സൈക്കിളുകൾ പറ്റി റെസിപ്രോക്കറ്റിംഗ് എഞ്ചിനുകൾക്കോ ആന്തരിക ജ്വലന എഞ്ചിനുകൾക്കോ വേണ്ടിയുള്ള ഗ്യാസ് പവർ സൈക്കിളുകൾക്ക് കീഴിൽ ഓട്ടോ ഡീസൽ ഡ്യുവൽ സൈക്കിളുകളെക്കുറിച്ച് നമ്മൾ വിശദമായി സംസാരിച്ചു റോട്ടറി തരത്തിലുള്ള ഉപകരണങ്ങൾക്ക് സ്റ്റിർലിംഗ് എറിക്സൺ സൈക്കിളുകളെക്കുറിച്ച് കൂടുതൽ പ്രസക്തമാണ് ബ്രൈടൺ സൈക്കിളിനെക്കുറിച്ച് നമ്മൾ വിശദമായി സംസാരിച്ചു ഇത് ഓപ്പറേറ്റിംഗ് സൈക്കിൾ അല്ലെങ്കിൽ റോട്ടറി തരം ഗ്യാസ് പവർ സൈക്കിളുകൾക്കുള്ള അനുയോജ്യയ ചക്രമാണ് അതും ഒരുതരം ബാഹ്യ ജ്വലനം എഞ്ചിൻ ആണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ നീരാവി പവർ സൈക്കിളിന്റെ രൂപത്തിൽ ഉള്ള റാങ്കൈൻ സൈക്കിൾ പറ്റി സംസാരിച്ചു ഇത് നീരാവി നയിക്കുന്ന ബാഹ്യ ജ്വലന എഞ്ചിനുകൾ അല്ലെങ്കിൽ I ന് അനുയോജ്യമായ ചക്രമാണ് ഘട്ടം മാറ്റം അടിസ്ഥാനമാക്കിയുള്ള ബാഹ്യ ജ്വലന എഞ്ചിനുകൾ എന്ന് പറയണം അതിനാൽ ഈ സന്ദർഭങ്ങളിലെല്ലാം ഞങ്ങൾ അനുയോജ്യമായ ചക്രങ്ങളിൽ നിന്നാണ് ആരംഭിച്ചത് തുടർന്ന് സിസ്റ്റത്തിന്റെ രൂപത്തിൽ ഉണ്ടാകാവുന്ന തരത്തിലുള്ള ക്രമക്കേടുകൾ അല്ലെങ്കിൽ അസാധാരണതകൾ പോലുള്ള നിരവധി അധിക ഘടകങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു ടർബൈനുകൾ പമ്പുകൾ കംപ്രസ്സറുകൾ എന്നിവയിലെ പൊരുത്തക്കേടുകൾ സാധ്യമായതിനെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചു ബോയിലറുകൾ ചൂട് എക്സ്ചേഞ്ചറുകൾ മുതലായ ചൂട് എക്സ്ചേഞ്ച് ഉപകരണങ്ങളിലെ മർദ്ദം കുറയുന്ന ആന്തരിക ജ്വലനത്തിനായി ഗ്യാസ് പവർ സൈക്കിളുകളുമായി സംയോജിച്ച് സംസാരിച്ചു ജ്വലനം വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന എഞ്ചിനുകൾ സമയം നഷ്ടപ്പെടുന്നത് പോലുള്ള ഘടകങ്ങൾ കൂടാതെ മറ്റ് തരത്തിലുള്ള പ്രായോഗിക നഷ്ടങ്ങളും അതിനാൽ വ്യത്യസ്ത തരത്തിലുള്ള ഊർജ്ജത്തിനായി പ്രവർത്തിക്കുന്ന ചക്രങ്ങളുടെ തത്വം മനസ്സിലാക്കാൻ നമ്മൾക്കു കഴിഞ്ഞു നിങ്ങൾ പ്രഭാഷണങ്ങൾ ശരിയായി പിന്തുടരുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന വിവിധ തരം വൈദ്യുതി ഉൽപാദന ചക്രങ്ങൾ എല്ലാം അറിയാമെന്ന് ഉറപ്പാക്കുക എന്നാൽ ചർച്ച ചെയ്തത എല്ലാ ചക്രങ്ങളും ഒറ്റപ്പെട്ട ചക്രങ്ങളാണ് റാങ്കൈൻ ചക്രം പോലെ തീർച്ചയായും നമുക്ക് ഫീഡ് വാട്ടർ ഹീറ്റർ വീണ്ടും ചൂടാക്കലും പുനരുജ്ജീവനവും നടത്താം എന്നാൽ ഇപ്പോഴും അടിസ്ഥാന പരമാവധി താപനിലയ്ക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു റാങ്കൈൻ ചക്രമാണ് സൈക്കിൾ സാധാരണയായി നിങ്ങൾ കണ്ടെത്തുന്ന ഏറ്റവും കുറഞ്ഞ കണ്ടൻസർ താപനില ബോയിലറിന്റെ എക്സിറ്റ് എന്നിവ കണ്ടെത്തുക ഇവിടെയാണ് ഇത് ഒരു ഒറ്റപ്പെട്ട ചക്രമായി പ്രവർത്തിക്കുന്നു അതുപോലെ ബ്രൈറ്റൺ സൈക്കിൾ അല്ലെങ്കിൽ മുമ്പത്തെ ഓട്ടോ ഡീസൽ സൈക്കിളുകളെക്കുറിച്ചും നമ്മൾ സംസാരിച്ചത് ഒറ്റപ്പെട്ട ചക്രങ്ങളാണ് ഒരു പരമാവധി താപനിലയ്ക്കും കുറഞ്ഞ താപനിലയ്ക്കും ഇടയിൽ പ്രവർത്തിക്കുന്നു പക്ഷേ അത്തരം ഒറ്റയ്ക്കുള്ള ഓപ്ഷനുകൾ ഏറ്റവും കൂടുതൽ ശക്തി ഉണ്ടാകാത്ത നിരവധി സാഹചര്യങ്ങളുണ്ടാകും അല്ലെങ്കിൽ ഒരുപക്ഷേ ഒറ്റയ്ക്ക് പോകുന്നതിനുപകരം എന്തെങ്കിലും സൈക്കിളുകളുടെ സംയോജനം തരത്തിൽ പോയാൽ നമുക്ക് കൂടുതൽ പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞേക്കും അവിടെയാണ് സംയോജിത ചക്രങ്ങളുടെയും കോജെനറേഷന്റെയും ആശയം ചിത്രത്തിലേക്ക് വരുന്നു ഊർജ്ജം ഉൽപാദിപ്പിക്കുന്ന നിരവധി ചക്രങ്ങളുടെ സംയോജനം സംയോജിത ചക്രം ബാധിക്കുന്നു രണ്ടോ അതിലധികമോ വൈദ്യുതി ഉൽപാദനം അനുയോജ്യമായ രീതിയിൽ സൈക്കിളുകൾ അതുവഴി ഒന്നിനേക്കാൾ ഉയർന്ന സംയോജിത കാര്യക്ഷമത ലഭിക്കും കോജെനറേഷൻ എന്നത് ഊർജ്ജത്തിന്റെ ഒരേസമയം ഉൽപാദനത്തെയും സൂചിപ്പിക്കുന്നു മുമ്പത്തെ പ്രഭാഷണത്തിലെന്നപോലെ അല്ലെങ്കിൽ നിങ്ങളുടെ അവസാന പ്രഭാഷണത്തിൽ കഴിഞ്ഞ ആഴ്ച ടർബൈനുകളുടെ രണ്ട് ഇതര പതിപ്പുകളെക്കുറിച്ച് ഞാൻ പരാമർശിച്ചു ഒന്ന് ഉണ്ടായിരുന്നു പാസ് ഔട്ട് ടർബൈൻ പാസ് ഔട്ട് ടർബൈനിന്റെ ലക്ഷ്യം എന്തായിരുന്നു നീരാവി എക്സ്ട്രാക്റ്റുചെയ്യുകയായിരുന്നു ലക്ഷ്യം ടർബൈനിൽ നിന്ന് എവിടെയെങ്കിലും നീരാവി നീക്കി ചില പ്രക്രിയകളിലേക്ക് വിതരണം ചെയ്യുക അതുപോലെ നമ്മൾ ഒരു ബാക്ക് പ്രഷർ ടർബൈനും ചെയ്തിട്ടുണ്ട് അവിടെ കണ്ടൻസർ ഇല്ലായിരുന്നു പകരം ചില പ്രക്രിയകളിലേക്ക് വിതരണം ചെയ്യുന്ന ടർബൈനിൽ നിന്ന് പുറത്തുവരുന്ന നീരാവി ആണ് ഉള്ളത് അതിനാൽ എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്നത് ടർബൈനിൽ നിന്നും നമുക്ക് തീർച്ചയായും ഔട്ട്പുട്ട് ലഭിക്കുന്നു ഒപ്പം ടർബൈനിൽ നിന്ന് പുറത്തുവരുന്നതോ നിലവിലുള്ള ടർബൈനിൽ നിന്ന് വേർതിരിച്ചെടുത്തതോ ആയ നീരാവി ചില പ്രക്രിയയിലും ഉപയോഗിക്കുന്നു അതിനാൽ നീരാവി രൂപത്തിനിന്നും താപോർജ്ജത്തെ ലഭിക്കുകയും ടർബൈൻ ഷാഫ്റ്റിന്റെ ഭ്രമണത്തിലൂടെ നമുക്ക് വൈദ്യുതി ലഭിക്കുന്ന തരത്തിലുള്ള ആശയത്തെ കോജെനറേഷൻ എന്ന് വിളിക്കുന്നു അതിനാൽ പരമ്പരാഗത വൈദ്യുതോർജ്ജത്തിനുപുറമെ എന്തെങ്കിലും നേടിയെടുക്കുക എന്നതാണ് കോജെനറേഷൻ ഔട്ട്പുട്ടും കാര്യക്ഷമതയ വർദ്ധിപ്പിക്കുന്നതിന് നിരവധി ചക്രങ്ങളെ ഒന്നിച്ച് സംയോജിപ്പിക്കുക എന്നതാണ് ആശയം ഇവ രണ്ടും പൊതുവെ കൈകോർത്തുപോകും ഈ ആഴ്ച ഞങ്ങളുടെ പ്രഭാഷണം ഉള്ളടക്കത്തിൽ അല്പം കുറവായിരിക്കാം മുമ്പത്തെ രണ്ട് ആഴ്ചകളിൽ ഞങ്ങൾക്ക് ഗ്യാസ് ടർബൈനുകൾക്കായുള്ള ഗ്യാസ് പവർ സൈക്കിളുകളെക്കുറിച്ചും സ്റ്റീം ടർബൈനുകൾക്ക് അനുയോജ്യമായ നീരാവി പവർ സൈക്കിളുകളെക്കുറിച്ചുംശാന്തമായ ഒരു കവറേജ് ഉണ്ടായിരുന്നു അതിനാൽ നിങ്ങൾ കുറച്ച് ഇടവേളയ്ക്ക് അർഹരാണ് അതിനാൽ ഞാൻ ഞങ്ങൾ കൂടുതലായിരിക്കുന്ന ഈ പ്രത്യേക ആഴ്ചയിൽ അൽപം പോകാൻ തീരുമാനിച്ചു സംയോജിത ചക്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ചും കോജെനറേഷനെക്കുറിച്ചും ചർച്ച ചെയ്യുന്നു തുടർന്ന് സംയോജിത ചക്രങ്ങളെക്കുറിച്ച് സാധ്യമായ കുറച്ച് ആപ്ലിക്കേഷനുകൾ നമ്മൾ സംസാരിക്കും ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ മുമ്പത്തെ പ്രഭാഷണത്തിൽ അവസാന പ്രഭാഷണം ഞങ്ങളുടെ മോഡൽ നമ്പർ 7 നിങ്ങളെ രണ്ട് റാങ്കൈൻ ഉള്ള ഈ പ്രത്യേക ചക്രത്തിലേക്ക് പരിചയപ്പെടുത്തി ഈ സംയോജിത ചക്രങ്ങളെ ബൈനറി നീരാവി ചക്രങ്ങൾ എന്ന് വിളിക്കുന്നു സ്ലൈഡ് കാണുക 0553 തീർച്ചയായും ബൈനറി എന്ന പദം രണ്ടെണ്ണത്തെ സൂചിപ്പിക്കുന്നു ഇപ്പോൾ ഒരു ടോപ്പിംഗ് ചക്രം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം സ്ഥലത്തിന്റെ വിനിയോഗം വിശദമായി എഴുതാം നമുക്ക് ടോപ്പിംഗ് സൈക്കിൾ ഉണ്ട് ഒരു റാങ്കൈൻ റാങ്കൈൻ സൈക്കിളാണ് മെർക്കുറി വർക്കിംഗ് മീഡിയമായി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നിട്ട് നമുക്ക് ഒരു ബോട്ടൊമിങ് സൈക്കിൾ ഉണ്ട് അത് വീണ്ടും മറ്റൊരു റാങ്കൈൻ സൈക്കിളാണ് ജോലി ചെയ്യുന്ന മാധ്യമമായി നീരാവി അല്ലെങ്കിൽ വെള്ളം ഒപ്പം പ്രവർത്തിക്കുന്നു രണ്ടും തമ്മിൽ ഓവർലാപ്പ് എവിടെയാണ് ഓവർലാപ്പ് ഇവിടെ ചൂട് എക്സ്ചേഞ്ചറിലാണ് ടോപ്പിംഗ് സൈക്കിളിനുള്ള കണ്ടൻസറും ബോട്ടൊമിങ് സൈക്കിളിനുള്ള ബോയിലറായി പ്രവർത്തിക്കുന്നു ടോപ്പിംഗ് സൈക്കിൾ നിരസിച്ച താപത്തിന്റെ അളവ് വർക്കിംഗ് മീഡിയത്തിന്റെ എന്തൽപി സംസ്ഥാനത്ത് നിന്ന് വർദ്ധിപ്പിക്കുന്നതിന് താഴത്തെ ചക്രത്തിലേക്ക് വിതരണം ചെയ്യുന്നു 7 എന്ന അവസ്ഥയിലേക്ക് ടർബൈനിലേക്ക് 6 ഓപ്ഷണൽ സൂപ്പർ ഹീറ്റർ ഉണ്ടാവാം പക്ഷേ സാധാരണയായി ടോപ്പിംഗിന്റെ കണ്ടൻസർ ബോട്ടൊമിങ് സൈക്കിളിന്റെ ബോയിലറുമായി സൈക്കിൾ കൂട്ടിച്ചേർക്കുകയോ ക്ലബ്ബ് ചെയ്യുകയോ ചെയ്യുന്നു ഈ തരം കോമ്പിനേഷൻ ഇതിനെയാണ് ഞങ്ങൾ സംയോജിത ചക്രം എന്ന് വിളിക്കുന്നത് തീർച്ചയായും മുമ്പത്തെ പ്രഭാഷണത്തിൽ ഞങ്ങൾ സംസാരിച്ചു മെർക്കുറിക്ക് ഉള്ളപ്പോൾ സൈക്കിളിന്റെ ഗുണങ്ങളെയും ദോഷങ്ങളെയും കുറിച്ച് കുറച്ച് വിശദാംശം വളരെ അനുകൂലമായ ഗുരുതരമായ സമ്മർദ്ദവും താപനിലയും എന്നാൽ മെർക്കുറി വിഷവും ചെലവേറിയതുമാണ് സാധാരണയായി ഈ പ്രത്യേക സംയോജനത്തെ പ്രായോഗികമായി പരിഗണിക്കാൻ കഴിയാത്തവിധം ചെലവേറിയതാക്കുന്നു ഒപ്പം അതിനാൽ 1920 കളിലും 30 കളിലും ഇത് മാന്യമായ അളവിൽ ഉപയോഗിച്ചിരുന്നുവെങ്കിലും കഴിഞ്ഞ കുറച്ച് സമയങ്ങളിൽ വർഷങ്ങളായി നിങ്ങൾ ഇതുപോലുള്ള ഒരു കോമ്പിനേഷൻ കണ്ടെത്തുന്നില്ല എന്നാൽ പ്രവർത്തന തത്ത്വം നമുക്ക് ഒരു ടോപ്പിംഗ് സൈക്കിളും ഒരു ബോട്ടമിംഗ് സൈക്കിളും ഉണ്ട് ടോപ്പിംഗ് സൈക്കിളിന്റെ കണ്ടൻസർ ബോട്ടൊമിങ് സൈക്കിളിന്റെ ഒരു ബോയിലറായി പ്രവർത്തിക്കുന്നു സംയോജിത ചക്രത്തിനായുള്ള പ്രവർത്തന തത്വമാണ് അത് എല്ലായ്പ്പോഴും രണ്ട് ചക്രങ്ങളുടെ മാന്യമായ സംയോജനം നൽകിയിട്ടുണ്ടെങ്കിൽ ഒരു നല്ല നിർദ്ദേശം ഞാൻ ഇവിടെ കാണിക്കുന്ന കോമ്പിനേഷൻ പോലെ ഇവിടെ ഇവ രണ്ടും പ്രകൃതിയിലെ റാങ്കൈൻ ചക്രമാണ് എന്നാൽ അതു ഒരു ബൈനറി ആയ റാങ്കൈൻ റാങ്കൈൻ സംയോജനം പ്രായോഗികമായി നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് നീരാവി സൈക്കിൾ ആശയം വളരെ ലാഭകരമായിരിക്കില്ല ഇവിടെ കാണിച്ചിരിക്കുന്നതുപോലെ മറിച്ച് റാങ്കൈൻ സൈക്കിളിൽ അടിവരയിടുന്ന ചക്രം പറ്റിനിൽക്കാൻ പോകുന്നിടത്ത് ഇത് കൂടുതൽ സൌകര്യപ്രദമായിരിക്കും പക്ഷേ ഞങ്ങൾ ടോപ്പിംഗ് സൈക്കിളിനെ മറ്റെന്തെങ്കിലും ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കാൻ പോകുന്നു ഗ്യാസ് ടർബൈൻ അല്ലെങ്കിൽ ബ്രൈറ്റൺ സൈക്കിൾ ആകുക ബ്രൈട്ടനെക്കുറിച്ച് നിങ്ങൾ ഇതിനകം ചർച്ചചെയ്തു റാങ്കൈൻ സൈക്കിളും ഞങ്ങൾ നിരവധി അക്കങ്ങളും പരിഹരിച്ചിട്ടുണ്ട് ഒരുപക്ഷേ നിങ്ങൾ അവിടെ ശ്രദ്ധിച്ചിരിക്കണം ബ്രൈടൺ സൈക്കിളിന്റെ പ്രവർത്തന താപനിലയുമായി റാങ്കൈൻ ചക്രം താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ കൂടുതലാണ് റാങ്കൈൻ സൈക്കിൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന നീരാവി 550 മുതൽ 600 0C വരെയാണ് ഇത് ബ്രൈടൺ സൈക്കിളിൽ ഇത് പരമാവധി താപനില 1400 0C അല്ലെങ്കിൽ അതിലും കൂടുതലായിരിക്കും അതിനാൽ ഈ മൂല്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ റാങ്കൈനിന്റെ കാര്യത്തിൽ നമുക്ക് ലഭിക്കുന്ന പരമാവധി താപനില സൈക്കിൾ അല്ലെങ്കിൽ സാധാരണയായി 600 0C പരിധിയിലുള്ള നീരാവി അടിസ്ഥാനമാക്കിയുള്ള ചക്രം എന്നിരുന്നാലും വാതക അധിഷ്ഠിത ചക്രമായ ബ്രേട്ടൺ ചക്രത്തിന്റെ കാര്യത്തിൽ നമുക്ക് ലഭിക്കുന്ന പരമാവധി താപനില 1400 0C യിൽ കൂടുതലായിരിക്കും ടർബോ പ്രൊപ്പല്ലർ തരത്തിലുള്ള എഞ്ചിനുകൾ 1500 0C ൽ കൂടുതലാകാം അതിനാൽ പരമാവധി താപനിലയിൽ തീർച്ചയായും കാര്യമായ വ്യത്യാസമുണ്ട് കാർനോട്ട് സൈക്കിളിന്റെ കാര്യക്ഷമത ഇപ്രകാരമാണെന്ന് അറിയുക 𝜂𝑡ℎ 1 𝑇𝑚𝑖𝑛𝑇𝑚𝑎𝑥 ബ്രൈറ്റൺ സൈക്കിളുകളോ റാങ്കൈൻ സൈക്കിളോ തികച്ചും പഴയപടിയാക്കാവുന്ന ചക്രമല്ലെങ്കിലും അവ ആന്തരികമായി പഴയപടിയാക്കാവുന്നവയാണ് അതിനാൽ അവയ്ക്കൊന്നും കാർനോട്ട് കാര്യക്ഷമത നേടാൻ കഴിയില്ല എന്നിരുന്നാലും നമുക്ക് മാന്യമായ ഒരു സൂചന ലഭിക്കും ഒരു ഊർജ്ജോൽപാദന ചക്രത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് നിങ്ങൾക്ക് സാധ്യമായ ഏറ്റവും ഉയർന്ന Tmax നും സാധ്യമായ ഏറ്റവും കുറഞ്ഞ Tmin നും ഇപ്പോൾ നമ്മൾ Tmin അതേപടി നിലനിർത്തുകയാണെങ്കിൽ ഇപ്പോൾ ബ്രൈറ്റൺ റാങ്കൈൻ സൈക്കിൾ താരതമ്യം ചെയ്യുന്നു തീർച്ചയായും ബ്രൈടൺ സൈക്കിൾ കൂടുതൽ സ്കോർ പോകുന്നു Tmax ഗണ്യമായി ഉയർന്നതിനാൽ ഇത് വളരെ ഉയർന്ന ദക്ഷത കൈവരിക്കാൻ പോകുന്നു 30 0C പോലെയുള്ള ഒന്നായി നമുക്ക് Tmin ശരിയാക്കാം റാങ്കൈൻ ചക്രത്തിന് അനുബന്ധ കാർനോട്ട് സൈക്കിൾ കാര്യക്ഷമത സാധ്യമായ പരമാവധി കാര്യക്ഷമത തുല്യമായിരിക്കും അല്ലെങ്കിൽ ഒരു കാർനോട്ട് സൈക്കിളിന്റെ കാര്യക്ഷമത 30 0C നും 600 0C നും ഇടയിൽ പ്രവർത്തിക്കുന്നത് ഇതായിരിക്കും 1 303873 അതേസമയം അനുബന്ധ ബ്രേട്ടൺ സൈക്കിളിന്റെ പരമാവധി കാര്യക്ഷമത ഇതായിരിക്കും 1 3031673 303 K ഏറ്റവും കുറഞ്ഞ താപനില കെൽവിനിൽ 30 0C ഉം ഉയർന്ന താപനില 14000C ഉം ആണ് 1673 K ഏതാണ് വലുത് തീർച്ചയായും ഇത് ഇതിന് വളരെ വലുതാണ് അതുകൊണ്ട് റാങ്കൈൻ സൈക്കിൾ താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ബ്രൈറ്റൺ സൈക്കിൾ ഗണ്യമായി വലിയ കാര്യക്ഷമത സൃഷ്ടിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്നാൽ പ്രായോഗികമായി അങ്ങനെയായിരിക്കില്ല കാരണം ഏറ്റവും കുറഞ്ഞ താപനില ഞങ്ങൾ സംസാരിക്കുന്നത് റാങ്കൈനും ബ്രൈറ്റൺ സൈക്കിളിനും സമാനമായിരിക്കാൻ കഴിയില്ല വാസ്തവത്തിൽ ബ്രൈറ്റൺ സൈക്കിൾ വിടുന്ന ചൂടുള്ള എക്സ്ഹോസ്റ്റ് വാതകം വളരെ ഉയർന്ന താപനിലയിൽ ആകാം ഗ്യാസ് ടർബൈൻ പ്ലാന്റിൽ നിന്ന് പുറത്തുപോകുന്ന വാതകത്തിന്റെ താപനില ഒരു വാതകത്തിന്റെ താപനിലയിൽ നിന്ന് പുറത്തുകടക്കുക ടർബൈൻ പ്ലാന്റ് 500 0C അല്ലെങ്കിൽ അതിലും ഉയർന്നതോ അല്ലെങ്കിൽ വളരെ അടുത്തോ ആകാം പരമാവധി താപനില റാങ്കൈൻ സൈക്കിളിൽ എത്താൻ കഴിയും അതനുസരിച്ച് അതിന്റെ കാര്യക്ഷമത ബാധിക്കുന്നു അതിനാൽ ബ്രൈറ്റൺ സൈക്കിളിന്റെ പ്രായോഗിക കാര്യക്ഷമത അപ്പോൾ 1 7731673 മാത്രമായിരിക്കും ഈ പ്രത്യേക മൂല്യവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് തീർച്ചയായും ഗണ്യമായ കുറവാണ് തീർച്ചയായും എനിക്ക് ഈ നമ്പറുകൾ ഇല്ല കാരണം ഞാൻ ഈ താപനില മൂല്യങ്ങൾ തികച്ചും ക്രമരഹിതമായി സൃഷ്ടിക്കുന്നു എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇവ രണ്ടും കണക്കാക്കാം കാര്യക്ഷമത കണക്കിലെടുത്ത് ബ്രൈറ്റൺ സൈക്കിൾ ലഭിക്കുന്നതിനുള്ള നേട്ടം കാര്യമായ ഒന്നും തന്നെ ഉണ്ടാകണമെന്നില്ല പിന്നെ എന്തുചെയ്യണം ഒന്നാമതായി ബ്രൈറ്റൺ സൈക്കിൾ ഉയർന്ന തോതിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഇവ രണ്ടും സമാനമായ കാര്യക്ഷമത നൽകുന്നു താപനിലയും രണ്ടാമതായി ഗ്യാസ് ടർബൈനിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന എക്സിറ്റ് താപനിലയും അത് ചുറ്റുപാടിലേക്ക് വിടുന്നതിന് വളരെ ഉയർന്നതാണ് നിങ്ങളുടെ ചുറ്റുപാടും ചുറ്റുമായിരിക്കാം 30 0C ഇപ്പോൾ നിങ്ങൾ 500 അല്ലെങ്കിൽ 6000C താപനിലയുള്ള ഒരു വാതകം പുറപ്പെടുവിക്കുന്നു അത് താപ മലിനീകരണത്തിന്റെ അളവ് പ്രധാനമാണ് പുനരുജ്ജീവനത്തിനായി നമുക്ക് തീർച്ചയായും പോകാം ഇത് താപനില കുറയ്ക്കും പുനരുജ്ജീവനത്തിനുശേഷവും താപനില 300 0C പരിധിയിലായിരിക്കാം ഇപ്പോഴും വളരെ ഉയർന്നതാണ് അതിനാൽ എന്താണ് ഓപ്ഷൻ ഈ എക്സിറ്റ് ഗ്യാസ് എന്നതാണ് ഓപ്ഷൻ ഗ്യാസ് ടർബൈനിൽ നിന്ന് ബോയിലറിലെ ഉത്പാദനം പുറത്തുവരുന്നത് നമുക്ക് നീരാവിയിലെ ഊർജ്ജ സ്രോതസ്സായി ഉപയോഗിക്കാം വാതക താപനില തീർച്ചയായും അതിന്റെ പരിധിയിലാണ് 500 0C അല്ലെങ്കിൽ അതിലും ഉയർന്നത് അതിനാൽ നമുക്ക് ഫ്ലോ റേറ്റ് ശ്രദ്ധാപൂർവ്വം നിയന്ത്രിക്കാൻ കഴിയുമെങ്കിൽ ഇത് വളരെ സാധ്യമാണ് വാതകത്തിന്റെ പിണ്ഡത്തിന്റെ ഒഴുക്കിന്റെയും നീരാവിയിലെ പിണ്ഡത്തിന്റെ ഒഴുക്കിന്റെയും നിരക്ക് അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാം ഈ ഊർജ്ജത്തിന്റെ എക്സ്ഹോസ്റ്റ് അല്ലെങ്കിൽ ഈ വാതകത്തിലെ ശേഷിക്കുന്ന ഊർജ്ജം വർദ്ധിപ്പിക്കുന്നതിന് ഈ 500 0C ക്ക് അടുത്തുള്ള ഒന്നിലേക്ക് നീരാവിയിലെ താപനില അതിനാൽ നമുക്ക് എളുപ്പത്തിൽ അത്തരം സംയോജനത്തിനായി പോകാം രണ്ട് പവർ സൈക്കിളുകളുണ്ടെങ്കിലും ഇത് നോക്കൂ രണ്ട് ടർബൈനുകൾ ഇതാണ് മെർക്കുറി ടർബൈൻ ഇതാണ് സ്റ്റീം ടർബൈൻ എന്നിട്ടും നമുക്ക് ബാഹ്യ ഊർജ്ജം നൽകേണ്ട ഒരു ബോയിലർ മാത്രമേയുള്ളൂ ഇതാണ് ബാഹ്യ ഊർജ്ജം വിതരണം ചെയ്യുന്നത് അടിവരയിടുന്ന ചക്രത്തിന് നമുക്ക് ബാഹ്യ ഉറവിടങ്ങളൊന്നും ആവശ്യമില്ല ടോപ്പിംഗ് സൈക്കിൾ വഴി താഴത്തെ ചക്രത്തിൽ ചൂട് ആഗിരണം ചെയ്യപ്പെടുന്നു പക്ഷേ രണ്ടിൽ നിന്നും പവർ ഔട്ട്പുട്ട് ലഭിക്കുന്നു അതിനാൽ ഗ്യാസ് ടർബൈൻ പ്ലാന്റിൽ നിന്ന് പുറത്തുവരുന്ന ഈ എക്സിറ്റ് ഗ്യാസ് നമുക്ക് നീരാവിയിലേക്ക് ഉപയോഗിക്കാനോ ചാനൽ ചെയ്യാനോ കഴിയുമെങ്കിൽ അതുവഴി പമ്പിൽ നിന്ന് വരുന്ന ദ്രാവക ജലത്തെ പൂരിത നീരാവിയിലേക്ക് പരിവർത്തനം ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ സൂപ്പർഹീറ്റ് നീരാവി അവസ്ഥ ആകാൻ സാധ്യതയുണ്ട് അവിടെ നമുക്ക് എളുപ്പത്തിൽ സ്റ്റീം ടർബൈൻ പ്രവർത്തിപ്പിക്കാൻ കഴിയും അധിക ഊർജ്ജ സ്രോതസ്സുകളുടെ ആവശ്യമില്ലാതെ ഈ സംയോജിത ആശയവും അതാണ് ഇതിനുള്ള ചക്രം ഇതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ഇവിടെ ഒരു ഗ്യാസ് ടർബൈൻ പ്ലാന്റ് ഉണ്ട് നമുക്ക് കുറച്ച് ഇന്ധനം ഉണ്ട് ഗ്യാസ് ടർബൈനിലേക്ക് ഒരു ഇന്ധനം വിതരണം ചെയ്യുന്നു അതിനനുസരിച്ച് നിങ്ങൾ ഇതിനകം തന്നെ ഗ്യാസ് ടർബൈൻ പ്ലാന്റിനെക്കുറിച്ച് പഠിച്ചു അതിനാൽ വാതകത്തിന്റെ ജ്വലനത്തിലെ ഇന്ധനത്തിന്റെ വിതരണം ടർബൈൻ കംപ്രസ്സർ എയർ കംപ്രസ്സറിൽ നിന്ന് വരുന്നു ജ്വലന അറയിൽ പ്രതികരിക്കുന്നു ഒടുവിൽ വാതകത്തിലൂടെ കടന്നുപോകുന്ന ഉയർന്ന താപനില ജ്വലന വാതകങ്ങൾ ഉത്പാദിപ്പിക്കാൻ ടർബൈൻ ചെയ്ത് വൈദ്യുതോർജ്ജം ഉത്പാദിപ്പിക്കുന്നു എന്നാൽ ഈ വാതകത്തിൽ നിന്ന് പുറത്തുവരുന്ന ചൂടുള്ള എക്സ്ഹോസ്റ്റ് വാതകം ടർബൈൻ പ്ലാന്റ് അത് നീരാവി ഉത്പാദിപ്പിക്കുന്നതിനായി ചൂട് വീണ്ടെടുക്കൽ യൂണിറ്റിലെ എന്തെങ്കിലും വിതരണം ചെയ്യുന്നു പലപ്പോഴും എച്ച്ആർഎസ്ജിയെ എന്ന് വിളിക്കുന്നു ഹീറ്റ് റിക്കവറി സ്റ്റീം ജനറേറ്റർ ഈ യൂണിറ്റിലെ നീരാവി ജനറേറ്റുചെയ്യാൻ ഇവിട ബാഹ്യ ഊർജ്ജം ചേർക്കുന്നില്ല പകരം ചൂടുള്ള എക്സ്ഹോസ്റ്റ് വാതകങ്ങളിൽ ചൂട് ലഭ്യമാണ് അതുകൊണ്ടാണ് ഇതിനെ ചിലപ്പോൾ വേസ്റ്റ് ചൂട് ബോയിലർ എന്നും വിളിക്കുന്നത് അതിനാൽ ഈ ചൂട് വീണ്ടെടുക്കൽ യൂണിറ്റിൽ ചൂടുള്ള എക്സ്ഹോസ്റ്റ് വാതകങ്ങൾ ഉപയോഗിക്കുന്നു ദ്രാവക ജലം വിതരണം ചെയ്യുന്നു അത് ഇതാണ് റാങ്കൈൻ സൈക്കിളിന്റെ ബോയിലർ പമ്പിൽ നിന്ന് ദ്രാവക വെള്ളം വരുന്നു ബോയിലർ മർദ്ദം അത് നമുക്ക് ഉപയോഗിക്കാവുന്ന ചൂടുവെള്ളം അല്ലെങ്കിൽ നീരാവി ആയി പരിവർത്തനം ചെയ്യുന്നു പിന്നീട് താൽപ്പര്യമുള്ള ഏത് ഉദ്ദേശ്യവും താപനില കുറവാണെങ്കിൽ ഔട്ട്പുട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത് ദ്രാവക ജലം മാത്രമായിരിക്കും പക്ഷേ ഉയർന്ന താപനിലയിൽ അത് നിർദ്ദിഷ്ട ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം കുടിവെള്ള ആവശ്യങ്ങൾ പാചകം പലതരം ഫാർമസ്യൂട്ടിക്കൽ ചൂടുവെള്ളം ആവശ്യമുള്ള മറ്റ് വ്യവസായങ്ങൾ എന്നിവയ്ക്കായി നിങ്ങൾക്ക് നീരാവി ലഭിക്കുകയാണെങ്കിൽ നീരാവി രാസ വ്യവസായങ്ങൾക്കും നിരവധി തരം പ്രോസസ്സിംഗ് വ്യവസായങ്ങൾക്കും ഉപയോഗിക്കാം എങ്കിൽ നീരാവി താപനില ആവശ്യത്തിന് ഉയർന്നതാണെങ്കിൽ നിങ്ങൾക്ക് നീരാവി ഒരു സ്റ്റീം ടർബൈനിലേക്ക് നയിക്കാനാകും കൂടുതൽ ഊർജ്ജ ഉൽപാദനത്തിനായി അതിനാൽ ഇതാണ് കോജെനറേഷന്റെ ആശയവും സംയോജിത ചക്രത്തിന്റെ രൂപത്തിലും ഇപ്പോൾ വളരെ വ്യക്തമായിരിക്കണം സംയോജിത സൈക്കിൾ എന്ന് പരാമർശിക്കുന്നത് അത് കാണിക്കുമ്പോൾ ഗ്യാസ് ടർബൈൻ പ്ലാന്റിൽ നിന്ന് മാത്രം വൈദ്യുതി ലഭിക്കുന്ന ഒരു കോജെനറേഷൻ മോഡിൽ കൂടുതൽ ചൂട് വീണ്ടെടുക്കൽ യൂണിറ്റിൽ നിന്ന് മറ്റ് പ്ലാന്റ് വാഹനങ്ങളിൽ നിന്ന് ചൂടുവെള്ളമോ നീരാവിയോ ലഭിക്കുന്നു എന്നിരുന്നാലും ഈ ചൂടുവെള്ളമോ നീരാവിയോ ലഭിച്ചതിന്റെ ചരിത്രം ചൂടാക്കുന്നതിന് ഇത് ഉപയോഗിക്കുന്നതിന് പകരം ഉൽപാദനത്തിനായി ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ ഒരു സംയോജിത ചക്രം എന്ന് വിളിക്കുന്നു കാരണം നിങ്ങൾക്ക് രണ്ട് ഉറവിടങ്ങളിൽ നിന്ന് വൈദ്യുതി ലഭിക്കുന്നു എന്നാൽ നിങ്ങൾ ഈ പ്രത്യേക രൂപത്തിൽ തുടരുകയാണെങ്കിൽ അവിടെ നമുക്ക് നീരാവി ഭാഗത്ത് നിന്ന് വൈദ്യുതി ലഭിക്കുന്നില്ല പകരം ചൂടുവെള്ളം മാത്രം ലഭിക്കുന്നു അല്ലെങ്കിൽ നീരാവി അതിനെ ഞങ്ങൾ ഒരു കോജെനറേഷൻ പ്ലാന്റ് എന്ന് വിളിക്കുന്നു ഇത് പരിഗണിക്കുക നമുക്ക് നിരവധി ഗുണങ്ങളുണ്ട് മൊത്തത്തിലുള്ള പ്ലാന്റ് കാര്യക്ഷമതയാണ് വർദ്ധനവിന്റെ ഏറ്റവും വലിയ നേട്ടം അത് തീർച്ചയായും പ്ലാന്റ് കാര്യക്ഷമത വർദ്ധിക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ ലക്ഷ്യം ലഭിക്കുകയാണെങ്കിൽ പവർ ഔട്ട്പുട്ടിന്റെ പ്രത്യേക അളവ് അപ്പോൾ നമുക്ക് കുറഞ്ഞ ഇന്ധനം ആവശ്യമാണ് കാര്യക്ഷമമായ വിഭവം ഉപയോഗം ഹോട്ട് എക്സ്ഹോസ്റ്റ് വാതകങ്ങൾ ഒരു റിസോഴ്സായി ഉപയോഗിക്കുന്നതിനാൽ ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയും ഉറവിടങ്ങൾ ശരിയായി കുറഞ്ഞ ഉൽപാദനച്ചെലവ് കാരണം ഇന്ധനച്ചെലവ് കുറയുന്നു വൈദ്യുതി ഉൽപാദനച്ചെലവും കുറയും എനിക്ക് ഉള്ളതുപോലെ പരിസ്ഥിതിയിൽ കുറഞ്ഞ സ്വാധീനം ഈ ചൂടുള്ള എക്സ്ഹോസ്റ്റ് വാതകങ്ങൾ കാരണം ഉണ്ടാകാനിടയുള്ള താപ മലിനീകരണത്തെക്കുറിച്ച് സംസാരിച്ചു ചുറ്റുപാടും ഉപയോഗിച്ചതിനാൽ ഇത് ഒഴിവാക്കാം ഞങ്ങൾക്ക് ഒരു സംയോജിത പ്ലാൻ ഉള്ളപ്പോൾ ഒരു സംയോജിത സൈക്കിൾ തരം ഓപ്ഷൻ ഗ്യാസ് ടർബൈൻ മോഡിൽ നിന്നും സ്റ്റീം ടർബൈൻ മോഡിൽ നിന്നും നമുക്ക് വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ കഴിയും പിന്നെ ചില പ്രശ്നങ്ങൾ കാരണം ഗ്യാസ് ടർബൈൻ ഇന്ധനം ലഭ്യമല്ലെന്നും ഗ്യാസ് ടർബൈൻ പ്രവർത്തിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കില്ലെന്നും കരുതുക വിതരണം ചെയ്യുന്നതിലൂടെ സഹായ ചൂടാക്കൽ വഴി നിങ്ങൾക്ക് ഇപ്പോഴും സ്റ്റീം ടർബൈൻ പ്രവർത്തിപ്പിക്കാൻ കഴിയും ചില അധിക സ്രോതസ്സുകളിൽ നിന്നുള്ള ഊർജ്ജം എന്നിട്ടും നിങ്ങളുടെ പ്ലാന്റ് കുറച്ച് ശക്തിയുടെ അളവ് നൽകും അത് പൂർണ്ണമായും നിർത്തുകയില്ല നിങ്ങൾക്ക് സാധാരണയായി ഏതെങ്കിലും പ്രവർത്തിപ്പിക്കുന്നതിനുള്ള ഓപ്ഷനായി സൈക്കിൾ പ്ലാന്റുകൾ സംയോജിപ്പിക്കാൻ കഴിയും അത്തരം പ്രത്യേക സാഹചര്യങ്ങളെ നേരിടാൻ ശ്രദ്ധിക്കേണ്ട ഘടകങ്ങളുടെ സാധാരണയായി ഓരോ സ്റ്റീം ടർബൈനിനും കുറഞ്ഞത് ഒന്നിൽ കൂടുതൽ ഗ്യാസ് ടർബൈനുകൾ ആവശ്യമാണ് രണ്ട് ഗ്യാസ് ടർബൈൻ സ്റ്റീം ടർബൈൻ എന്നിവയ്ക്കുള്ള ഫ്ലോ റേറ്റുകൾ പൊരുത്തപ്പെടേണ്ടതുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ച ഒരു ഗ്യാസ് ടർബൈനിന് ആവശ്യമായ ഊർജ്ജം ലഭ്യമാകണമെന്നില്ല നീരാവി ടർബൈനിൽ ഉപയോഗിക്കേണ്ട ഗണ്യമായ അളവിൽ എക്സ്ഹോസ്റ്റ് വാതകത്തിൽ നീരാവി ഉയർത്താൻ അതിനാൽ പലപ്പോഴും കുറഞ്ഞത് ഇരട്ടി എണ്ണം ഗ്യാസ് ടർബൈൻ പ്ലാന്റുകൾ ആവശ്യമാണ് കൂടാതെ നിങ്ങൾ ചിലതരം സ്റ്റീം ടർബൈനിന്റെ സൂപ്പർഹീറ്റിംഗിനും വീണ്ടും ചൂടാക്കലിനുമായി തിരയുകയാണെങ്കിൽ നമുക്ക് ചില അധിക തപീകരണ ഓപ്ഷൻ ഉപയോഗിക്കേണ്ടി വന്നേക്കാം കാരണം ഊർജ്ജം എക്സോസ്റ്റ് വാതകങ്ങളിൽ വീണ്ടും ലഭ്യമാകുന്നത് ഒരു റീഹീറ്ററിലും ഉപയോഗിക്കാൻ പര്യാപ്തമല്ലായിരിക്കാം അതിനാൽ ഇതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് നിരവധി തരം സംയോജിത സൈക്കിൾ പ്ലാന്റ് ഉണ്ട് ടോപ്പിംഗ് സൈക്കിളിനും ബോട്ടമിംഗ് സൈക്കിളിനുമുള്ള പൊതുവായ ചോയിസുകൾ അല്ലെങ്കിൽ കോമ്പിനേഷൻ പറയണം ബോട്ടമിംഗ് സൈക്കിളിൽ ടോപ്പിംഗ് സൈക്കിൾ സംയോജിത ചക്രങ്ങൾ നിങ്ങൾക്ക് വ്യത്യസ്ത ആശയപരമായ രൂപകൽപ്പന നൽകും എന്നാൽ ഏറ്റവും സാധാരണമായ സംയോജനമാണ് ഒരു വാതകം ടോപ്പിംഗ് സൈക്കിളായി ടർബൈൻ ബോട്ടമിംഗ് സൈക്കിളായി സ്റ്റീം ടർബൈൻ നിങ്ങൾ സംസാരിക്കുന്നത് ടോപ്പിംഗായി എംഎച്ച്ഡി മാഗ്നെറ്റോ ഹൈഡ്രോ ഡൈനാമിക് ജനറേറ്റർ പോലുള്ള മറ്റ് ചിലതും നമുക്ക് ഉണ്ടായിരിക്കാം സൈക്കിളും സ്റ്റീം ടർബൈനും ബോട്ടലിംഗ് സൈക്കിളായി ഒരു ഓപ്ഷനാകും MHD ഇപ്പോഴും വളരെ വളരെ കൂടുതലാണ് പുനരുപയോഗ ഊർജ്ജ ഉൽപാദനത്തിനുള്ള സാങ്കേതികവിദ്യ പക്ഷേ അതിന് അതിന്റേതായ ഒരു പോരായ്മയുണ്ട് അത് ഇനിയും പൂർണ്ണമായും വാണിജ്യവൽക്കരിക്കേണ്ടതുണ്ട് ടോപ്പിംഗ് സൈക്കിളായി എംഎച്ച്ഡിയും ബോട്ടമിംഗ് സൈക്കിളായി തെർമോ ഇലക്ട്രിക്കും ടോപ്പിംഗ് സൈക്കിളായി എംഎച്ച്ഡിയും ബോട്ടമിംഗ് സൈക്കിളായി തെർമോ അയോണിക് പോലുള്ള നൂതന ഓപ്ഷനുകൾ പോലും നമുക്ക് ഉണ്ടായിരിക്കാം അതിനാൽ ഇവയെല്ലാം വ്യത്യസ്ത തരം സംയോജിത ചക്രങ്ങളാണ് എന്നാൽ പ്രിൻസിപ്പൽ ഒന്നുതന്നെയാണ് ടോപ്പിംഗ് സൈക്കിൾ നിരസിച്ച താപത്തിന്റെതുക അടിത്തറ ചക്രം ആഗിരണം ചെയ്യുന്നു അതിനാൽ നമുക്ക് ബാഹ്യ ഊർജ്ജ ഇൻപുട്ട് ഉണ്ടായിരിക്കേണ്ടത് ടോപ്പിംഗ് സൈക്കിളിൽ മാത്രമാണ് ഇവിടെ കാണിക്കുന്ന സൈക്കിൾ സമയം നോക്കൂ ഇവിടെ ഇതിന് മുകളിൽ നമുക്ക് ബ്രൈറ്റൺ സൈക്കിൾ ഉണ്ട് അന്തരീക്ഷത്തിൽ നിന്നുള്ള വായു 5 ൽ വിതരണം ചെയ്യുന്ന പരമ്പരാഗത ബ്രൈറ്റൺ ചക്രം കംപ്രസ്സറിലെ ഉയർന്ന മർദ്ദത്തിലേക്ക് 6 ലേക്ക് ഉയർത്തി അപ്പോൾ നമുക്ക് ജ്വലന അറയുണ്ട് ചൂട് വിതരണം ചെയ്യുന്നിടത്ത് പ്രായോഗിക സാഹചര്യത്തിൽ നിങ്ങൾ അവിടെ ഇന്ധനം ചേർക്കുന്നു വലിയ അളവിൽ ഊർജ്ജം ലഭിക്കുന്നതിനുള്ള ജ്വലനം ഈ ഉയർന്ന താപനില ജ്വലനത്തിൽ നിങ്ങൾക്ക് ഊർജ്ജം നൽകുന്നതിനായി സ്റ്റേറ്റ് നമ്പർ 7 ആയ ഗ്യാസ് ഗ്യാസ് ടർബൈൻ പ്ലാന്റ് കടന്നുപോകുന്നു ഇപ്പോൾ ഈ എക്സോസ്റ്റ് എട്ടാമത്തെ അവസ്ഥയിലുള്ള ഗ്യാസ് ടർബൈനിൽ നിന്ന് പുറത്തുവരുന്നു ഇത് ഉപയോഗിക്കുന്നില്ല അവിടെ പുനരുജ്ജീവന ഉദ്ദേശ്യം ഞങ്ങൾ തീർച്ചയായും ഒരു റീജനറേറ്ററും ഉപയോഗിച്ചു പക്ഷേ ഇതിൽ കുറഞ്ഞത് സൈക്കിൾ ഒരു പുനരുജ്ജീവനവും ഉപയോഗിക്കുന്നില്ല ഇത് നേരിട്ട് പുറത്തുകടക്കാൻ ഞങ്ങൾ അനുവദിക്കുന്നില്ല പകരം ഞങ്ങൾ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചറിലൂടെ വിതരണം ചെയ്യുന്നു അവിടെ അത് കുറച്ച് ഊർജ്ജം പുറപ്പെടുവിക്കുകയും അവസാനം വിടുകയും ചെയ്യുന്നു സ്റ്റേറ്റ് നമ്പർ 9 ൽ ഇപ്പോൾ ഈ നേർരേഖയ്ക്ക് താഴെ നമുക്ക് റാങ്കൈൻ സൈക്കിൾ ഉണ്ട് അവിടെ പമ്പിൽ നിന്ന് വരുന്ന ദ്രാവക ജലം അതേ ചൂട് എക്സ്ചേഞ്ചറിലൂടെ കടന്നുപോകുന്നു അങ്ങനെ ഇതിൽ നിന്ന് പുറത്തുകടക്കുമ്പോൾ അത് പരമ്പരാഗതമായി സൂപ്പർഹീഡ് നീരാവി അല്ലെങ്കിൽ പൂരിത നീരാവി ആയി പരിവർത്തനം ചെയ്യപ്പെടും അത് നീരാവി ടർബൈനിലൂടെ കടന്നുപോകുന്നു അപ്പോൾ നമുക്ക് കണ്ടൻസറും പമ്പും ഉണ്ട് ഇത് റാങ്കൈൻ സൈക്കിൾ പൂർത്തിയാക്കുന്നു ഇത് നോക്കൂ റാങ്കൈൻ സൈക്കിളിന് ഇൻപുട്ടിനായി ബാഹ്യമൊന്നും ആവശ്യമില്ല കാരണം ടോപ്പിംഗ് സൈക്കിളിൽ നിന്ന് മാത്രം ബോയിലറിൽ ആവശ്യമായ താപത്തിന്റെ ശക്തി ലഭിക്കുന്നു Ts അനുബന്ധ ഡയഗ്രം ഇതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് 5 6 7 8 9 എന്നീ അവസ്ഥകൾ ഗ്യാസ് ടർബൈനുമായി യോജിക്കുന്നു 1 2 3 4 എന്നിവ നീരാവി ടർബൈനിനോ അല്ലെങ്കിൽ റാങ്കൈൻ സൈക്കിൾ ടോപ്പിംഗ് സൈക്കിളിന്റെ അപൂർണ്ണമായ ഭാഗമാണ് ഈ 9 മുതൽ 5 വരെ അവസ്ഥ 5 ൽ വിതരണം ചെയ്യുന്നു ഇത് ഒടുവിൽ ഗ്യാസ് ടർബൈൻ പ്ലാന്റിനെ സ്റ്റേറ്റ് 9 നൊപ്പം വിടുകയാണ് അതിനാൽ അത് പൂർണ്ണമായ ഒരു ചക്രമല്ല എന്നിരുന്നാലും വാതകങ്ങളുടെ താപനില ഗണ്യമായതോ അനുയോജ്യമോ ആണെങ്കിൽ അപ്പോൾ നമുക്ക് നീരാവി സൂപ്പർഹീഡ് ലെവലിലേക്ക് ഉയർത്താം ഇവിടെ കാണുക വാതകത്തിന്റെ താപനില അവസ്ഥ നമ്പർ 8 അതായത് ടർബൈനിന്റെ പുറത്തുകടക്കുമ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള പരമാവധി താപനില സ്റ്റീം ടർബൈൻ ഗ്രൌണ്ടിൽ എത്തുന്നത് ഇതാണ് അതിനാൽ ഇപ്പോഴും ഗണ്യമായ താപനില വ്യത്യാസം അളവ് ഉണ്ട് ന്യായമായ അളവിൽ നിലനിർത്തുന്നതിന് നാം പരിപാലിക്കേണ്ടതുണ്ട് താപ കൈമാറ്റത്തിന്റെ പൊതുനിരക്കിൽ താപ കൈമാറ്റം ഞങ്ങൾ വേഗത്തിൽ കാണുകയാണെങ്കിൽ ഈ ചൂട് എക്സ്ചേഞ്ചർ നോക്കുക mg എന്നത് അനുബന്ധ വാതക പ്രവാഹ നിരക്കിനെ സൂചിപ്പിക്കുന്നു ഇവിടെ വാതകത്തെ ഊഹിക്കുന്നത് എയർ സ്റ്റാൻഡേർഡ് അനുമാനത്തിന് സമാനമാണ് നിരന്തരമായ നിർദ്ദിഷ്ട താപമുള്ള അനുയോജ്യമായ വാതകമാണിതെന്ന് കരുതുക അതിനാൽ ഇത് വാതകം നിരസിച്ച താപത്തിന്റെ അളവായിരിക്കും നീരാവിക്ക് ലഭിക്കുന്ന ഊർജ്ജത്തിന്റെ അളവ് എത്രയാണ് ഇത് ഇങ്ങനെയായിരിക്കും 𝑚̇sℎ3 ℎ2 ṁs എന്നത് നീരാവിയിലെ പിണ്ഡത്തിന്റെ ഒഴുക്ക് നിരക്കിനെ സൂചിപ്പിക്കുന്നു h3 h2 എന്നത് എന്തൽപിയിലെ മാറ്റങ്ങളെ സൂചിപ്പിക്കുന്നു അതിനാൽ ചൂട് എക്സ്ചേഞ്ചറിൽ നഷ്ടങ്ങളൊന്നുമില്ലെങ്കിൽ ചൂടിന്റെ അളവ് ചുറ്റുപാടും ഉപേക്ഷിക്കുന്നില്ല ഗ്യാസ് ടർബൈൻ പ്ലാന്റും താപവും നിരസിച്ച താപത്തിന്റെ അളവാണ് ഇത് സ്റ്റീം ടർബൈൻ പ്ലാന്റ് സ്വീകരിച്ചു അതായത് 𝑚̇𝑔 𝑐 𝑝𝑔 𝑇8 𝑇9 𝑚̇ 𝑠ℎ3 ℎ2 ബാക്കി കണക്കുകൂട്ടൽ നടപടിക്രമം അതേപടി തുടരുന്നു വാതകത്തിന് വ്യക്തിഗതമാണ് ടർബൈൻ സ്റ്റീം ടർബൈൻ അത്തരമൊരു കോമ്പിനേഷന്റെ കാര്യക്ഷമതയെക്കുറിച്ച് ഒരു ആശയം നേടാൻ നമുക്ക് വേഗത്തിൽ ശ്രമിക്കാം നമുക്ക് പരിഗണിക്കാം ഞങ്ങളുടെ ടോപ്പിംഗ് സൈക്കിൾ T1 നും T2 നും ഇടയിലുള്ള താപനില പരിധിയിൽ പ്രവർത്തിക്കുന്നു ഇതാണ് ടോപ്പിംഗ് T1 താപനിലയിൽ ജലസംഭരണിയിൽ നിന്ന് Q1 അളവ് ചൂടാക്കുന്ന ചക്രം ഉത്പാദിപ്പിക്കുന്നു W1 ഒരു ജോലിയുടെ അളവ് Q2 താപം നിരസിക്കൽ ഇവിടെ ടി 1 ടി 2 അതാണ് ടോപ്പിംഗ് സൈക്കിൾ നിരസിക്കുന്ന താപത്തിന്റെ അളവ് ഇപ്പോൾ ബോട്ടോമിങ് ഈ സംഭരണി ടി 2 ൽ നിന്ന് താഴെയുള്ള ചക്രം അതേ അളവിൽ ചൂട് ക്യു 2 എടുക്കും W2 തുക സൃഷ്ടിക്കും മറ്റൊരു സംഭരണിയിലേക്ക് ചൂട് നിരസിക്കും T3 താപനിലയിൽ സൂക്ഷിക്കുന്നത് T3 ഇതിലും കുറവായ Q3 അളവിലുള്ള താപത്തെ നിരസിക്കുന്നു ഈ ഗ്യാസ് ടർബൈൻ സ്റ്റീം ടർബൈൻ കോമ്പിനേഷൻ താരതമ്യം ചെയ്യുക ഇവിടെ ടി 1 ഏകദേശം 1400 0C ആകാം ജ്വലന അറ പുറത്തുകടക്കുമ്പോൾ ജ്വലന വാതകങ്ങളുടെ T2 ന്റെ താപനിലയാകാം ഏകദേശം 500 അല്ലെങ്കിൽ 600 0C ആണ് ഇത് ടർബൈൻ എക്സോസ്റ്റ് വാതകത്തിന്റെ താപനിലയാണ് ടി 3 അന്തരീക്ഷ താപനിലയാകാം അതിനാൽഗ്യാസ് ടർബൈൻ പ്ലാന്റിന്റെ പരമാവധി താപനില ആരംഭിക്കുന്നതിനുള്ള താപനിലയും അന്തരീക്ഷ താപനില മുഴുവൻ കവർ ചെയ്യാൻ കഴിയും ഇപ്പോൾ രണ്ടാമത്തെ ചക്രം നോക്കുക രണ്ടാമത്തെ സൈക്കിൾ കാര്യക്ഷമത ഇപ്രകാരം നൽകാം 𝜂2 𝑊2𝑄2 𝑄3 𝑄2 𝑊2 𝑄2 𝜂2𝑄2 1 𝜂2𝑄2 1 𝜂11 𝜂2𝑄1 ഈ സംയോജിത ചക്രത്തെക്കുറിച്ച് ഈ താപനിലയ്ക്കിടയിൽ സംയോജിത ചക്രം പ്രവർത്തിക്കുന്നു T1 മുതൽ T3 വരെയുള്ള ശ്രേണി ഇത് റിസർവോയർ താപനില T1 ൽ നിന്നും Q1 അളവ് എടുക്കുന്നു Q3 താപവും താപനിലയും T3 നിരസിക്കുന്നു റിസർവോയർ താപനില T3 W1 W2 എന്നിവ നൽകുന്നു സംയോജിത ഔട്ട്പുട്ടായി സംയോജിത ചക്രത്തിന്റെ കാര്യക്ഷമത ഇതായിരിക്കും 𝜂𝐶𝐶 𝑊1 𝑊2 𝑄1 𝑊1𝑄1 𝑊2𝑄1 𝜂1 𝑊2𝑄1 മുകളിലുള്ള സമവാക്യത്തിലെ രണ്ടാമത്തെ പദത്തെ എങ്ങനെ പ്രതിനിധീകരിക്കാം പദപ്രയോഗം നോക്കൂ ഞങ്ങൾക്ക് നേരത്തെ ലഭിച്ചതും സംയോജിത ചക്രത്തിന്റെ കാര്യക്ഷമത ഇപ്രകാരം എഴുതുന്നതും 𝜂1 𝜂2𝑄2𝑄1 ഈ പ്രത്യേക പദപ്രയോഗം ഉപയോഗിച്ച് നമുക്ക് എഴുതാം 𝜂1 𝜂2 1 𝜂1 𝜂1 𝜂2 𝜂1𝜂2 അല്ലെങ്കിൽ നിങ്ങൾ എഴുതുകയാണെങ്കിൽ 1 𝜂𝐶𝐶 1 𝜂1 𝜂2 𝜂1𝜂2 1 𝜂1 1 𝜂2 അതിനാൽ സംയോജിത ചക്രത്തിന്റെ കാര്യക്ഷമത ഞങ്ങൾക്ക് ലഭിക്കുന്നു അത് ഇതിന് തുല്യമായിരിക്കും 1 1 𝜂1 1 𝜂2 ഇത് വികസിപ്പിക്കുന്നതിനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സമവാക്യമാണ് അവിടെ ഞങ്ങൾ കാര്യക്ഷമതയെ പ്രതിനിധീകരിക്കുന്നു രണ്ട് സൈക്കിളുകളുടെയും വ്യക്തിഗത കാര്യക്ഷമത കണക്കിലെടുത്ത് സംയോജിത ചക്രം നിങ്ങൾക്ക് അനുമാനിക്കാം η1 η2 എന്നിവയ്ക്കായുള്ള ഏത് മൂല്യവും നിങ്ങൾക്ക് കണക്കുകൂട്ടൽ നടത്താനാകും ഉണ്ടെങ്കിൽ അതേ രീതിയിൽ തുടരുക നിങ്ങൾ മൂന്ന് സൈക്കിളുകളെ സംയോജിച്ച് കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നു അവിടെയാണ് ബോട്ടലിംഗ് സൈക്കിൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു ഇന്റർമീഡിയറ്റ് സൈക്കിൾ പോലെയാണ് തുടർന്ന് Q3 താപം നിരസിക്കുന്നു W3 തുക നൽകുന്ന മൂന്നാം സൈക്കിൾ ഇത് നിരീക്ഷിക്കുന്നു പിന്നെ അതിനായി ഒരു തരം സൈക്കിൾ നിങ്ങൾ ηCC ഇതായി വരുന്നതായി കണ്ടെത്തും 1 1 𝜂1 1 𝜂2 1 𝜂3 പൊതുവേ നമുക്ക് എല്ലായ്പ്പോഴും എഴുതാം നിങ്ങൾ ഇവിടെ സംയോജിപ്പിക്കുന്ന മൊത്തം ചക്രങ്ങളുടെ എണ്ണം N ആണ് നിങ്ങൾ ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ മൂന്ന് സൈക്കിളുകൾ സംയോജിതമായിരിക്കുന്ന ഒരു കേസിനെക്കുറിച്ചാണ് ഞങ്ങൾ സംസാരിക്കുന്നത് η1 0 45 നിങ്ങൾ ഇത് സംയോജിപ്പിച്ച് അക്കങ്ങൾ ഇടുകയാണെങ്കിൽ ഇത് എളുപ്പത്തിൽ മാറുന്നുവെന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ കണക്കാക്കാം ഏകദേശം 0 അതിനാൽ സംയോജിത ചക്രം നിങ്ങൾക്ക് 89 കാര്യക്ഷമത നൽകും എന്താണ് കാരണം കാര്യക്ഷമത ഗണ്യമായ അളവിൽ വർദ്ധിക്കുന്നത് എന്തുകൊണ്ട് വ്യക്തിഗതമാണെങ്കിലും സൈക്കിളുകളുടെ പരമാവധി വലുപ്പം 55 ആണെങ്കിലും കോമ്പിനേഷൻ 89 പ്രവർത്തനക്ഷമത നൽകുന്നു നിരസിച്ച താപത്തിന്റെ ഫലപ്രദമായ ഉപയോഗത്തിലാണ് കാരണം ഇവിടെ താപനില കുറയുന്നു ഫലപ്രദമായ ചൂട് നിരസിക്കുന്നതിൽ ഉയർന്ന കാര്യക്ഷമതയും സംഭവിക്കുന്നു പോലെ ടോപ്പിംഗ് സൈക്കിളിനായി ഇവിടെ കാണിച്ചിരിക്കുന്ന ഡയഗ്രം ചൂട് നിരസിക്കുന്നതിന്റെ താപനില T2 ഉം അടിവരയിടുന്ന ചക്രം അത് ടി 3 ആണ് നിങ്ങൾ അവയെ സംയോജിപ്പിക്കുമ്പോൾ താപത്തിന്റെ താപനില നിരസിക്കൽ ഈ ടി 3 മാത്രം ഈ താപനില T3 T2 നേക്കാൾ കുറവായതിനാൽ തീർച്ചയായും ഈ പൊതു സർക്കിളിന്റെ കാര്യക്ഷമത ടോപ്പിംഗ് സൈക്കിളിന്റെ കാര്യക്ഷമതയേക്കാൾ കൂടുതലായിരിക്കും അതിനാൽ അടിവരയിടുന്ന ചക്രത്തിന്റെ കാര്യമോ അടിവരയിടുന്ന ചക്രത്തിന് താപം കൂട്ടുന്നതിന്റെ താപനില T2 ആണ് അതേസമയം ടോപ്പിംഗ് സൈക്കിൾ T1 ആണ് ടി 1 എന്നതിനർത്ഥം വളരെ ഉയർന്നതാണ് അതിനാൽ നമുക്ക് ഫലപ്രദമായ താപനില പ്രതീക്ഷിക്കാം ടോപ്പിംഗ് സൈക്കിൾ വളരെ ഉയർന്നതും ഒരു സംയോജിത സൈക്കിൾ ഈ ടി 1 നെ താപനിലയായി ഉപയോഗിക്കുന്നു താപ സങ്കലനത്തിന്റെ അതിനാൽ അതിന്റെ കാര്യക്ഷമതയും ഈ എണ്ണത്തിൽ നിന്ന് വർദ്ധിക്കുന്നു അതിനാൽ സംയോജനം ഈ രണ്ട് ചക്രങ്ങളും പരമാവധി ചൂട് കൂട്ടിച്ചേർക്കൽ നടത്താൻ ഞങ്ങളെ അനുവദിക്കുന്നു താപനിലയും ചൂട് നിരസിക്കലും സാധ്യമായ ഏറ്റവും കുറഞ്ഞ താപനിലയിൽ ചെയ്യുന്നു അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഉയർന്ന തലത്തിലുള്ള കാര്യക്ഷമത ലഭിക്കുന്നു ഒരു സാംഖിക പ്രശ്നം ഇവിടെ പരിഹരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ സംയോജിത ചക്രം കൈകാര്യം ചെയ്യുന്നതിനുള്ള മാർഗം കാണിക്കുന്നതിന് ടോപ്പിംഗ് ഗ്യാസ് ടർബൈൻ ഉപയോഗിച്ച് മർദ്ദം 8 എന്ന അനുപാതത്തിൽ ഒരു സംയോജിത സൈക്കിൾ പ്ലാന്റ് പ്രവർത്തിക്കുന്നു എയർ 300K കംപ്രസ്സറിലും ടർബൈൻ 1300 Kയിലും പ്രവേശിക്കുന്നു കംപ്രസ്സർ 80 ഗ്യാസ് ടർബൈൻ 85 ചുവടെയുള്ള ചക്രം ഒരു ലളിതമായ റാങ്കൈൻ ചക്രമാണ് 7 MPa നും 5 kPa നും ഇടയിലുള്ള മർദ്ദ പരിധിയിൽ പ്രവർത്തിക്കുന്നു എക്സോസ്റ്റ് വാതകങ്ങൾ ചൂട് എക്സ്ചേഞ്ചറിൽ 500 0C താപനിലയിലേക്ക് നീരാവി ചൂടാക്കുകയും അവസാനം 450 കെ വിടുകയും ചെയ്യുന്നു പിണ്ഡത്തിന്റെ ഒഴുക്ക് നിരക്കിന്റെ അനുപാതവും താപ ദക്ഷതയും ഞങ്ങൾ കണ്ടെത്തണം ഇതാണ് അനുബന്ധ സൈക്കിൾ ഡയഗ്രം ഇവിടെ 1 നമുക്ക് ഇത് 2s 2 3 എന്ന് അടയാളപ്പെടുത്താം ബ്രൈടൺ സൈക്കിളിന് സമാനമായ 4 സെ 5 എന്ന് അടയാളപ്പെടുത്താം 1 2 3 4 റാങ്കൈൻ സൈക്കിളിലേക്ക് അതിനാൽ പോയിന്റ് 4 ൽ ഇത് ടർബൈൻ എക്സിറ്റ് പോയിന്റാണ് വാതകത്തിന്റെ താപനില വളരെ ഉയർന്നതാണ് ആ താപം നീരാവിയിലെ താപനില വാതകം ഉള്ളിടത്ത് 500 0 സി വരെ ഉയർത്താൻ ഉപയോഗിക്കുന്നു ഒടുവിൽ 450 കെ ന് പുറപ്പെടും ഇത് കെൽവിനിൽ നൽകിയിരിക്കുന്നു അതിനാൽ ആദ്യം നമുക്ക് ബ്രൈറ്റൺ സൈക്കിളിനെക്കുറിച്ച് സംസാരിക്കാം ബ്രൈറ്റൺ സൈക്കിൾ ഭാഗത്തിന് ഇത് നൽകിയിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം Rp 8 T1 300 K T3 1300 K T5 450 K ηC 0 85 ഇത് നോക്കൂ സ്റ്റീം ടർബൈൻ ഭാഗത്തിന് ഐസന്റ്രോപിക് കാര്യക്ഷമത നൽകിയിട്ടില്ല അതിനാൽ നിങ്ങൾക്ക് അനുമാനിക്കാം നീരാവി ടർബൈനിന്റെ വികാസം പ്രകൃതിയിൽ ഐസന്റ്രോപിക് ആയിരിക്കണം അതാണ് അനുയോജ്യമായ വികാസം പക്ഷേ കംപ്രഷനും വിപുലീകരണ വശങ്ങൾക്കും ഗ്യാസ് ടർബൈൻ സൈക്കിൾ ഐസെൻട്രോപിക് കാര്യക്ഷമത നൽകുന്നു ഇപ്പോൾ ഞങ്ങൾ അത് വിശകലനം ചെയ്യുന്നു ആദ്യം കംപ്രഷൻ പ്രക്രിയ നോക്കുക അങ്ങനെ ഒരു ഐസന്റ്രോപിക് വിപുലീകരണം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്കറിയാം ഈ മൂല്യങ്ങൾ നൽകിയിട്ടില്ല അതിനാൽ ഞങ്ങൾ പൊതുവായ മൂല്യങ്ങൾ എടുക്കുന്നു k 1 4 ഒപ്പം cp 1 005 kJ kgK അവ വായുവിനുള്ള അടിസ്ഥാന മൂല്യങ്ങളാണ് അതിനാൽ T2s T2s മൂല്യങ്ങൾ ഇടുന്നത് ഇതായിരിക്കും T2𝑠 543 43K ഇപ്പോൾ അതിനനുസൃതമായി കംപ്രസ്സറിനായുള്ള വർക്ക് ഇൻപുട്ട് ആവശ്യകത അനുയോജ്യമായ ഒന്ന് ആയിരിക്കും നിരന്തരമായ നിർദ്ദിഷ്ട താപമുള്ള അനുയോജ്യമായ വാതകമാണിതെന്ന് കരുതുക𝑊𝐶𝑖𝑑𝑒𝑎𝑙 𝑐𝑝𝑇2𝑠 𝑇1 244 16𝑘𝐽𝑘𝑔 അത് പ്രധാനമാണ് കാരണം വ്യത്യസ്ത ഫ്ലോ റേറ്റുകളുള്ള രണ്ട് മീഡിയ ഇവിടെയുണ്ട് അതിനാൽ ഈ ആദർശം കംപ്രസ്സർ വർക്ക് യൂണിറ്റിന്റെ kJ kg വാതകത്തിലാണ് യഥാർത്ഥ താപനിലയെക്കുറിച്ച് കംപ്രഷൻ കാര്യക്ഷമത നിർവചിക്കാമെന്ന് ഞങ്ങൾക്കറിയാം പോലെ 𝜂𝐶 𝑊𝐶𝑖𝑑𝑒𝑎𝑙𝑊𝐶𝑎𝑐𝑡𝑢𝑎𝑙 അവിടെ നിന്ന് ഞങ്ങൾക്ക് ആവശ്യകതയുടെ യഥാർത്ഥ കംപ്രഷൻ വർക്ക് ലഭിക്കും 𝑊𝐶𝑎𝑐𝑡𝑢𝑎𝑙 305 81 𝑘𝐽𝑘𝑔 അവിടെ നിന്ന് നമുക്ക് ടി 2 ന്റെ താപനിലയായി കണക്കാക്കാം കാരണം ഇത് മറ്റൊന്നുമല്ല 𝑊𝐶𝑎𝑐𝑡𝑢𝑎𝑙 𝑐𝑝 𝑇2′ 𝑇1 𝑇2′ 604 29 𝐾 ഞങ്ങൾക്ക് തരുന്നു ഞങ്ങൾക്ക് ηC നായി നേരിട്ട് എക്സ്പ്രഷൻ ഉപയോഗിച്ച് ടി 2 ലഭിക്കുമായിരുന്നു അതിനാൽ ഞാൻ പ്രത്യേകം കണക്കാക്കി ഇനിപ്പറയുന്നവ പിന്തുടർന്ന് വിപുലീകരണ ഭാഗത്തേക്ക് വരിക ഒരേ വഴി വികാസം ഐസെൻട്രോപിക് ആയിരുന്നെങ്കിൽ വാതകത്തിന്റെ താപനിലയായ T4s 717 66 അവിടെ നിന്ന് ടർബൈനിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കേണ്ട അനുയോജ്യമായ വർക്ക് output ട്ട്പുട്ട് ഇതായിരിക്കും 𝑇3 𝑇4𝑠 ടർബൈനിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച അനുയോജ്യമായ വർക്ക് ഔട്ട്പുട്ടാണിത് 585 25 kJ kg ഇവിടെ ഒരു ചെറിയ മാറ്റം അനുവദിക്കുക ഇതിനിടയിലുള്ള വർക്ക് ഔട്ട്പുട്ട് ഗ്യാസ് ടർബൈൻ കാരണം രണ്ട് ഗ്യാസ് ടർബൈനുകൾ ഉണ്ട് ഇപ്പോൾ വാതകത്തിന്റെ കാര്യക്ഷമത ഗ്യാസ് ടർബൈനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന യഥാർത്ഥ വർക്ക് ഔട്ട്പുട്ടാണ് ടർബൈൻ നിർവചിച്ചിരിക്കുന്നത് ഗ്യാസ് ടർബൈനിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്ന അനുയോജ്യമായ വർക്ക് ഔട്ട്പുട്ട് 𝜂𝐺𝑇 𝑊𝐺𝑇𝑎𝑐𝑡𝑢𝑎𝑙 𝑊𝐺𝑇𝑖𝑑𝑒𝑎𝑙 അവിടെ നിന്ന് ഗ്യാസ് ടർബൈനിൽ നിന്ന് ലഭിക്കുന്നു ഗ്യാസിൽ നിന്ന് യഥാർത്ഥ ഔട്ട്പുട്ട് ലഭിക്കും ടർബൈൻ ഈ ആദർശത്തിന്റെ 85 മാത്രമേ പ്രവചിക്കുകയുള്ളൂ അത് കിലോഗ്രാമിന് 497 46 kJ ആയി വരും അതിനാൽ ഗ്യാസ് ടർബൈനിൽ നിന്ന് പ്രായോഗികമായി നിങ്ങൾക്ക് ലഭിക്കുന്ന ജോലിയാണിത് താപനിലയുടെ അടിസ്ഥാനത്തിൽ ഇത് ഉപയോഗിച്ച് ഇത് ഇങ്ങനെ എഴുതാം 𝑊𝐺𝑇𝑎𝑐𝑡𝑢𝑎𝑙 𝑐𝑝 𝑇3′ 𝑇4′ അത് നമുക്ക് തരുന്നു 𝑇4′ 805 01 𝐾 അതിനാൽ ഗ്യാസ് ടർബൈൻ ചക്രത്തിന്റെ അഞ്ച് പോയിന്റുകളിൽ അഞ്ച് താപനില ലഭിച്ചു ഒപ്പം ഊർജ്ജം ആഗിരണം ചെയ്യപ്പെടുന്ന അളവ് അല്ലെങ്കിൽ ഗ്യാസ് ടർബൈൻ ഉൽപാദിപ്പിക്കുന്ന ജോലിയുടെ അളവുംപ്രായോഗികമായി കംപ്രസ്സർ ഉപയോഗിക്കുന്ന ജോലിയുടെ അളവും അതിനാൽ നമ്പറുകൾ വേണം നമുക്ക് ഇപ്പോൾ കണക്കാക്കാം നിങ്ങൾക്ക് കണക്കാക്കണമെങ്കിൽ അടുത്ത സ്ലൈഡിൽ ഞാൻ ചെയ്യും ഇവിടെ കുറച്ച് സ്ഥലം ലഭിക്കാൻ അതിനാൽ താപ ഇൻപുട്ടിന്റെ അളവ് അല്ലെങ്കിൽഗ്യാസ് ടർബൈൻ ആഗിരണം ചെയ്യുന്ന ഊർജ്ജത്തിന്റെ അളവ് പിന്നെ അത് എത്രയായിരിക്കും പോയിന്റ് 3 മുതൽ 2 വരെ ചൂട് ചെയ്തു അതിനാൽ അത് ഇതിന് തുല്യമായിരിക്കും 𝑞𝐺𝑇 𝑐𝑝 𝑇3′ 𝑇2′ ഇത് ഗ്യാസ് ടർബൈൻ ആഗിരണം ചെയ്യുന്ന താപത്തിന്റെ അളവാണ് അത് ഇതായി വരും 699 65 kJkg of gas ഇത് ഒരു ചെറിയ സംഖ്യയാണ് കാരണം നിങ്ങൾ കണക്കുകൂട്ടൽ നോക്കുകയാണെങ്കിൽ 497 46 kJ kg വാതകം ഗ്യാസ് ടർബൈൻ ഉൽപാദിപ്പിച്ചെങ്കിലും 305 81 kJ kg കംപ്രസ്സർ നമുക്ക് നൽകി നെറ്റ് പവർ ഔട്ട്പുട്ടിന്റെ ചെറിയ തുക നേടി ഗ്യാസ് ടർബൈൻ പ്ലാന്റിന്റെ വ്യക്തിഗത താപ ദക്ഷത സംയോജിപ്പിക്കുന്നത് ഇതിന് തുല്യമായിരിക്കും 𝜂𝑡ℎ𝐺𝑇 𝑊𝑛𝑒𝑡 𝐺𝑇𝑞𝐺𝑇 കാര്യക്ഷമത 27 41 പരിധിയിൽ വരും ഇതാണ് വ്യക്തിഗത കാര്യക്ഷമത ഗ്യാസ് ടർബൈനിനായി ഇപ്പോൾ ഞങ്ങൾ റാങ്കൈൻ സൈക്കിൾ ഭാഗത്തേക്ക് വരുന്നു ബ്രൈറ്റൺ സൈക്കിൾ ഭാഗം ചെയ്തു ഞങ്ങൾ റാങ്കൈൻ ചക്രത്തിലേക്ക് വരുന്നു ഞാൻ ചെയ്യേണ്ട സൈക്കിൾ ഡയഗ്രം ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല പോയിന്റുകളുടെ ആശയം ലഭിക്കുന്നതിന് ആവർത്തിച്ച് മുമ്പത്തെ സ്ലൈഡിലേക്ക് മടങ്ങേണ്ടതുണ്ട് അതിനാൽ റാങ്കൈൻ ചക്രത്തിൽ നമുക്ക് പോയിന്റ് 1 2 3 4 എന്നിവ ലഭിക്കണം മതിയായ എണ്ണം വിവരങ്ങൾ നൽകിയിരിക്കുന്നു പോയിന്റ് 1 5 kPa പൂരിത നീരാവി എന്നിവയുമായി യോജിക്കുന്നു അതിനാൽ പോയിന്റ് നമ്പർ 1 5 kPa മർദ്ദവും പൂരിത ദ്രാവകം നീരാവി അല്ല അതിനാൽ ഇത് ഞങ്ങളുടെ പക്കലുണ്ട് h1 137 75 kJ kg ഒപ്പം v1 0 001005 m 3 kg h4 2073 01 kJkg of steam ഇവിടെ നിങ്ങൾ സംസാരിക്കുന്ന ഒരു കിലോ നീരാവിക്ക് കാരണം നിങ്ങൾ പ്രവർത്തിക്കുന്ന മാധ്യമമാണ് ഇത് റാങ്കൈൻ ചക്രത്തിലാണ് ഇപ്പോൾ പമ്പ് വർക്ക് ഇതിന് തുല്യമായിരിക്കും 𝑣1 𝑃2 𝑃1 7 MPa ആയ ബോയിലർ മർദ്ദമാണ് പി 2 5 kPa ആയ ഒരു കണ്ടൻസർ മർദ്ദമാണ് പി 1 ഒന്ന് എംപിഎയിലും മറ്റൊന്ന് കെപിഎയിലുമുള്ള യൂണിറ്റുകളെക്കുറിച്ച് ശ്രദ്ധിക്കുക അതിനാൽ നിങ്ങൾ നമ്പറുകൾ ഇടുകയാണെങ്കിൽ നിങ്ങളുടെ പമ്പ് 7 03 kJ kg വളരെ ചെറിയ സംഖ്യയും വരുന്നു റാങ്കൈൻ സൈക്കിളിന് നിങ്ങൾ നൽകുന്ന ഈ വർക്ക് ഇൻപുട്ട് 7 03 kJ kg ആണ് അതേസമയം ഗ്യാസ് ടർബൈൻ ചക്രത്തിൽ 305 ആണ് അവ തമ്മിൽ കംപ്രഷൻ ഇല്ല അതാണ് കാരണം നിങ്ങൾ ഇപ്പോൾ അറിഞ്ഞിരിക്കേണ്ടത് അതിന്റെ പ്രത്യേക വോളിയത്തിലെ വ്യത്യാസം മൂലമാണ് ദ്രാവകം വാതക ഘട്ടം അവതരിപ്പിക്കുന്നു അതിനാൽ ഇപ്പോൾ നമ്പർ 1 പോയിന്റ് ചെയ്യുക ഈ പമ്പ് ഉപയോഗിച്ച് നിങ്ങൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നു പോയിന്റ് നമ്പർ 2 ലേക്ക് പോകാം പോയിന്റ് നമ്പർ 2 ന് മർദ്ദം 7 MPa ആയ ബോയിലർ മർദ്ദമാണെന്ന് ഞങ്ങൾക്കറിയാം ഒപ്പം s2 𝑠1 എന്നാൽ ഞങ്ങൾ സാധാരണയായി ഇത് ഉപയോഗിക്കില്ല ഞങ്ങൾ നേരിട്ട് കണക്കാക്കുന്നു h2 ℎ1 𝑊𝑃 144 78 𝑘𝐽 kg പോയിന്റ് നമ്പർ 3 അതായത് 7 എംപിഎയിൽ സൂപ്പർഹീറ്റ് നീരാവി 500 0 സി അതിനാൽ P3 7 T3 500 oC അതിനാൽ ഇത് സംയോജിപ്പിച്ച് നമുക്ക് സൂപ്പർഹീറ്റ് പട്ടികയിൽ നിന്ന് നേരിട്ട് നമ്പറുകൾ ലഭിക്കും 3411 4 kJ kg നീരാവി ഇത് ഒരു കിലോ നീരാവി എൻട്രോപ്പി എന്നിവയ്ക്കാണ് അതിനാൽ നമുക്ക് എൻട്രോപ്പിയുടെ മൂല്യം തുല്യമാണ് s3 6 80 kJ kg ഇപ്പോൾ പോയിന്റ് നമ്പർ 4 5 kPa ആയ കണ്ടൻസർ മർദ്ദവും ഈ വിപുലീകരണവുമാണ് ഐസന്റ്രോപിക് അതിനാൽ s4 𝑠3 അതിനാൽ ഇത് സംയോജിപ്പിച്ച് നിങ്ങൾക്ക് നടപടിക്രമം അറിയാം അവിടെ നിന്ന് ഞങ്ങൾ നിങ്ങൾക്ക് ഗുണനിലവാരമുള്ള x4 ലഭിക്കുന്നു 5 kPa യുമായി പൊരുത്തപ്പെടുന്നതിലൂടെ s4 നെക്കാൾ s4 കുറവാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനനുസരിച്ച് ഒരു മിശ്രിത ഭാഗത്ത് നമുക്ക് ലഭിക്കും x4 0 7987 ഇത് ഇടുന്നതിലൂടെ ഇനിപ്പറയുന്നവയുടെ മൂല്യങ്ങൾ ലഭിക്കും h4 2073 01 kJ kg അതിനാൽ ആദ്യം നമുക്ക് സ്റ്റീം ടർബൈനിനായി വ്യക്തിഗത വിശകലനം നടത്താം തുടർന്ന് ആകെ തുക സ്റ്റീം ടർബൈൻ സൈക്കിളിലോ റാങ്കൈൻ സൈക്കിളിലോ നിങ്ങൾക്ക് ആവശ്യമുള്ള ചൂട് തുല്യമായിരിക്കും ℎ3 ℎ2 1338 39 kJ kg നീരാവി ഒപ്പം സ്റ്റീം ടർബൈനിൽ നിന്നുള്ള വെനെറ്റ് ഞാൻ എഴുതിയിട്ടില്ലാത്ത ടർബൈൻ നിർമ്മിക്കുന്ന ജോലികൾക്ക് തുല്യമാണ് വെവ്വേറെ ശരി WST ഞാൻ നേരത്തെ എഴുതിയിരിക്കണം സ്റ്റീം ടർബൈനിൽ നിന്നുള്ള W തുല്യമായിരിക്കണം സ്വീകർത്താവ് ℎ3 ℎ4 കാരണം ടർബൈൻ വിപുലീകരണം ഈ പ്രത്യേക പ്രക്രിയ 3 മുതൽ 4 വരെ യോജിക്കുന്നു അതായത് h3 ℎ4 1338 39 𝑘𝐽⁄𝑘𝑔 ഈ സംഖ്യ താരതമ്യം ചെയ്താൽ അത് ഗ്യാസ് ടർബൈൻ നിർമ്മിച്ചതാണ് ഗ്യാസ് ടർബൈനിൽ നമുക്ക് കാണാൻ കഴിയും ചക്രം ഉൽപാദിപ്പിച്ച ആകെ ജോലിയും 497 46 കുറവായിരുന്നു ഇവിടെ ഞങ്ങൾ വളരെയധികം ഉയരുകയാണ് സ്റ്റീം ടർബൈനിൽ നിന്നുള്ള output ട്ട്പുട്ടിന്റെ അളവും ഉപഭോഗത്തിന്റെ വളരെ കുറഞ്ഞ അളവും ഒപ്പം അതനുസരിച്ച് സ്റ്റീം ടർബൈനിൽ നിന്നുള്ള നെറ്റ്വർക്ക് output ട്ട്പുട്ട് 𝑞𝑆𝑇 ℎ3 ℎ2 3266 62 𝑘𝐽⁄𝑘𝑔 𝑜𝑓 𝑠𝑡𝑒𝑎𝑚 അതിനാൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന വർക്ക് output ട്ട്പുട്ട് യഥാർത്ഥത്തിൽ ഞാൻ qST നായി മൂല്യം എഴുതി നിങ്ങൾ ഇത് ശ്രദ്ധിച്ചിരിക്കണം കാരണം h3 3411 ഉം h2 എന്നത് 144 ന്റെ വളരെ ചെറിയ സംഖ്യയുമാണ് ഇത് നമ്പർ 3266 അതിനാൽ ഞാൻ താഴെ qST നായി എക്സ്പ്രഷൻ മാറ്റിയെഴുതുന്നു ℎ3 ℎ2 3266 62 𝑘𝐽⁄𝑘𝑔 എന്റെ കുറിപ്പുകളിൽ ഞാൻ ഈ നമ്പറുകൾ ക്രമരഹിതമായി എഴുതിയിട്ടുണ്ട് മാത്രമല്ല ചിലപ്പോൾ തിരഞ്ഞെടുക്കുന്നതിൽ പ്രശ്നമുണ്ട് ശരിയായ ഒന്ന് മുകളിലേക്ക് അതിനാൽ സ്റ്റീം ടർബൈൻ പ്ലാന്റിന്റെ താപ ദക്ഷത മാത്രമായിരിക്കും നീരാവി ടർബൈനിൽ നിന്നും ലഭിക്കുന്ന energy ർജ്ജത്തിന്റെ അളവിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്ന നെറ്റ്വർക്ക് output ട്ട്പുട്ട് താപത്തിന്റെ രൂപത്തിൽ നീരാവി താപം ആഗിരണം ചെയ്യുന്നു 𝜂𝑡ℎ𝑆𝑇 𝑊𝑛𝑒𝑡𝑆T𝑞𝑆𝑇 1331 62 40 75 അതിനാൽ ഗ്യാസ് ടർബൈൻ പ്ലാന്റിന്റെയും സ്റ്റീം ടർബൈൻ പ്ലാന്റിന്റെയും വ്യക്തിഗത പ്രകടനം നമുക്കറിയാം പിന്നെ സംയോജിത ചക്രത്തിന്റെ കാര്യമോ സംയോജിത സൈക്കിൾ ഭാഗത്തിനായി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതുണ്ട് വ്യക്തിഗത പിണ്ഡത്തിന്റെ ഒഴുക്ക് നിരക്ക് അറിയുക അത് എങ്ങനെ കണക്കാക്കാം നിങ്ങൾക്ക് ആവശ്യമാണെന്ന് കണക്കാക്കാൻ അവ കപ്പിൾ ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകാനും ചൂടിൽ കൂപ്പിംഗ് നടക്കുന്നു എക്സ്ചേഞ്ചർ അവിടെ വാതകം സംസ്ഥാനത്തെ 4 ൽ നിന്ന് 5 ആയും നീരാവി 2 ൽ നിന്ന് അവസ്ഥയെ മാറ്റുന്നു T 3 ഈ ചൂട് എക്സ്ചേഞ്ചറിലുടനീളം ഞങ്ങൾ ഒരു ഊർജ്ജ ബാലൻസ് നടത്തണം ഞങ്ങൾ ഊർജ്ജ ബാലൻസ് നിർവഹിക്കുകയാണെങ്കിൽ നീരാവി ഭാഗത്ത് നമുക്ക് ഇനിപ്പറയുന്നവ ഉണ്ടായിരിക്കും 𝑚̇ ℎ3 ℎ2 അതാണ് സ്റ്റീം പ്ലാന്റ് നേടിയ മൊത്തം energy ർജ്ജം അതായത് പോയിന്റ് 2 മുതൽ പോയിന്റ് 3 വരെ ഈ ചലനത്തിനിടയിൽ വാതക താപനില 4 ൽ നിന്ന് 5 ആയി കുറയുന്നു അതിനാൽ ഇത് ഇതായിരിക്കും 𝑚 ℎ3 ℎ2 𝑇4 𝑇5 ′ ഈ താപനിലകളെല്ലാം ഇപ്പോൾ ഞങ്ങൾക്കറിയാം അവിടെ നിന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ കണക്കാക്കാം 𝑚̇𝑠𝑚̇𝑔 0 109 അതിനാൽ റാങ്കൈൻ സൈക്കിൾ പാതയിലെ നീരാവി വ്യവസായത്തിന്റെ ഒഴുക്ക് നിരക്ക് ഏകദേശം 1 മാത്രമാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഗ്യാസ് ടർബൈൻ പാതയിലെ വാതകത്തിന്റെ ഒഴുക്കിന്റെ നിരക്ക് ഗ്യാസ് ടർബൈൻ താപനില ഉയർത്താൻ ഉയർന്ന ഫ്ലോ റേറ്റ് സാധ്യമല്ല അതിനാൽ ഇത് ഒരു ഫലമാണ് നമുക്ക് അത് ലഭിക്കണം കാര്യക്ഷമതയും അതിനാൽ സംയോജിത ചക്രത്തിൽ നിന്നുള്ള നെറ്റ് ഔട്ട്പുട്ട് എന്താണ് സംയോജിത ചക്രത്തിൽ നിന്ന് ഞാൻ മൂലധന അർത്ഥത്തിൽ എഴുതുകയാണെങ്കിൽ W ഡോട്ട് നെറ്റ് തുല്യമായിരിക്കും യഥാർത്ഥത്തിൽ നമുക്ക് അവരുടെ വ്യക്തിഗത ഫ്ലോ റേറ്റുകൾ അറിയില്ല നമുക്ക് ഈ രീതിയിൽ എഴുതാം അനുപാതം മാത്രമേ നമുക്ക് അറിയൂ 𝑊̇ 𝑛𝑒𝑡 𝐶𝐶 𝑚̇ 𝑔𝑊𝑛𝑒𝑡 𝐺𝑇 𝑚̇ 𝑠𝑊𝑛𝑒𝑡 𝑆𝑇 വാതക പ്രവാഹത്തിന്റെ പിണ്ഡത്തിന്റെ ഒഴുക്ക് നിരക്ക് ഇരുവശത്തും നൽകിയിരിക്കുന്നു

77 𝑘𝑔 𝑜𝑓 𝑔𝑎𝑠 അതിനാൽ യൂണിറ്റ് ഫ്ലോ റേറ്റിലെ സംയോജിത സൈക്കിളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന നെറ്റ് വർക്ക് ഔട്ട്പുട്ടാണിത് വാതകത്തിന്റെ അതനുസരിച്ച് സംയോജിത ചക്രത്തിന്റെ താപ ദക്ഷത നെറ്റിന് തുല്യമായിരിക്കും ഔട്ട്പുട്ട് വാതകത്തിന്റെ യൂണിറ്റ് ഫ്ലോ റേറ്റിലെ സംയോജിത ചക്രത്തിൽ നിന്ന് നെറ്റ് ഇൻപുട്ടിലേക്ക് ലഭിക്കുന്നു നിങ്ങൾക്ക് വാതകത്തിന്റെ യൂണിറ്റ് ഫ്ലോ റേറ്റ് ലഭിക്കുന്നു അത് qGT അല്ലാതെ മറ്റൊന്നുമല്ല ഒരു ഗണിതശാസ്ത്ര പദപ്രയോഗം ഇപ്രകാരമാണ് 𝜂𝑡ℎ𝐶𝐶 𝑊𝑛𝑒𝑡𝐶𝐶𝑞𝐺𝑇 48 17 കാര്യക്ഷമത 48 17 ആയി മാറുന്നു ഇത് കാര്യക്ഷമതയേക്കാൾ വളരെ കൂടുതലാണ് ഗ്യാസ് ടർബൈൻ ഭാഗവും നീരാവി ടർബൈൻ ഭാഗവും വളരെ പ്രധാനമാണ് കാരണം വ്യക്തിഗത പ്ലാന്റുകൾ നിങ്ങൾ ഗ്യാസ് ടർബൈൻ മാത്രം പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾ മാത്രമല്ല ഉത്പാദിപ്പിക്കുന്നത് 27 ന്റെ കാര്യക്ഷമത മാത്രമല്ല ഇത് നോക്കുക അപ്പോൾ ഗ്യാസ് ചൂട് എക്സ്ചേഞ്ചർ ഇല്ലായിരുന്നുവെങ്കിൽ ഈ ഘട്ടത്തിൽ 4 പ്രൈം അന്തരീക്ഷത്തിൽ നിന്ന് പുറത്തുപോകുമായിരുന്നു നിങ്ങളുടെ ടി 4 800 കെ ആയിരുന്നു അതിനാൽ അവിടെയുണ്ട് ചക്രങ്ങളുടെ സംയോജനമൊന്നുമില്ലെങ്കിൽ ഞങ്ങൾക്ക് 27 കാര്യക്ഷമത മാത്രമേ ലഭിക്കൂ ഒരു വാതകം അനുവദിക്കുന്നു ചുറ്റുപാടിലേക്ക് പോകാൻ 800 കെ താപനിലയുള്ള സ്ട്രീം അതുപോലെ നിങ്ങൾ മാത്രം തിരയുകയാണെങ്കിൽ സ്റ്റീം ടർബൈൻ അപ്പോൾ വാതകത്തിൽ നിന്ന് നീരാവി ടർബൈൻ സ്വീകരിച്ച മുഴുവൻ താപവും ടർബൈൻ പ്ലാന്റ് ബാഹ്യമായി വിതരണം ചെയ്യേണ്ടതുണ്ട് എന്നിട്ടും നിങ്ങൾക്ക് 40 ഓളം കാര്യക്ഷമത ലഭിക്കുന്നു മാത്രം ഈ കോമ്പിനേഷൻ ഉയർന്ന ഔട്ട്പുട്ട് നേടാൻ ഞങ്ങളെ അനുവദിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു കാര്യക്ഷമത 48 17 കൂടാതെ ഏറ്റവും കുറഞ്ഞ താപനില എന്താണ് ഇപ്പോൾ 800 ന് പകരം 450 കെയിലാണ് ഗ്യാസ് പുറത്തേക്ക് പോകുന്നത് കെ 450 കെ ഗണ്യമായി കുറവാണ് മാത്രമല്ല പ്ലാന്റിന്റെ ഏറ്റവും കുറഞ്ഞ താപനില സാച്ചുറേഷൻ ആണ് താപനില 5 kPa അതിനാൽ ഈ സംയോജിത ചക്രത്തിന്റെ ഏറ്റവും കുറഞ്ഞ താപനിലയാണ് 5 kPa ന് സമാനമായ സാച്ചുറേഷൻ താപനില 33 0C മാത്രം ആയിരിക്കും അതിനാൽ 1300 K നും 306 നും ഇടയിലുള്ള താപനില പരിധിക്കിടയിൽ ഈ സംയോജിത ചക്രം പ്രവർത്തിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയും അത് വളരെ വലിയ താപനിലയാണ് ഞങ്ങൾക്ക് അത്തരം ഉയർന്ന തോതിൽ നൽകുന്നത് പരിഗണിക്കേണ്ടതാണ് കാര്യക്ഷമത ഞങ്ങൾ രീതി പിന്തുടർന്ന് കാര്യക്ഷമത കണക്കാക്കാനും കഴിയുമായിരുന്നു രണ്ട് സ്ലൈഡുകൾ തിരികെ വികസിപ്പിച്ചെടുത്തു അതാണ് ഞാൻ സംസാരിക്കുന്നത് എന്നാൽ ഒരു പ്രശ്നം ഈ ചക്രത്തിൽ ഗ്യാസ് ടർബൈൻ കംപ്രസ്സർ ടർബൈൻ എന്നിവയ്ക്ക് ഐസന്റ്രോപിക് കാര്യക്ഷമതയുണ്ട് ഐക്യമല്ലാത്ത ഐസന്റ്രോപിക് കാര്യക്ഷമത അതിനാൽ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അതേ മൂല്യം ലഭിക്കുന്നില്ല ഐസന്റ്രോപിക് കാര്യക്ഷമത ഇല്ലെങ്കിൽ കാര്യക്ഷമത കണക്കാക്കുന്നു പകരം ഞാൻ ചെയ്യണം ഐസന്റ്രോപിക് കാര്യക്ഷമത ഒന്നാണെന്ന് പറയുക അപ്പോൾ ഈ പ്രത്യേക വില വളരെ ഉയർന്നതാണ് സമാന മൂല്യങ്ങൾ കണക്കാക്കുകയും അതുവഴി ഈ വ്യക്തിഗത കാര്യക്ഷമത സംയോജിപ്പിക്കുകയും ചെയ്യുക ഇന്നത്തെ പ്രഭാഷണത്തിനായി നിങ്ങൾ ആഗ്രഹിച്ച കോജെനറേഷനെക്കുറിച്ചുള്ള ചർച്ച അതാണ് അതിനാൽ ഇന്ന് ഞാൻ ബൈനറി നീരാവി പവർ സൈക്കിൾ ഉപയോഗിച്ചാണ് ആരംഭിച്ചത് സംയോജിത ചക്രത്തിന്റെ പ്രാധാന്യവും കോജെനറേഷന്റെ തത്വവും എന്നിട്ട് ഞാൻ സംസാരിച്ചു ടോപ്പിംഗ് ആയി ബ്രൈടൺ സൈക്കിൾ ഉപയോഗിക്കുന്ന സംയോജിത ഗ്യാസ് സ്റ്റീം പവർ പ്ലാന്റിനെക്കുറിച്ച് സൈക്കിളും റാങ്കൈൻ സൈക്കിളും അടിവരയിടുന്നു നിരവധി വ്യവസായങ്ങളുണ്ട് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന നിരവധി വാണിജ്യ പ്ലാന്റുകൾ ഞാൻ പറയണം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ പ്രത്യേക സംയോജനം വളരെ വിജയകരമായി പ്രവർത്തിക്കുന്നു 1980 കളുടെ അവസാനം മുതൽ അതിനാൽ വാണിജ്യ വൈദ്യുതി ഉൽപാദനത്തിന്റെ വളരെ ശക്തമായ ഒരു ഓപ്ഷനാണ് ഇത് ഭാവിയിൽ കൂടുതൽ വളരുമെന്ന് പ്രതീക്ഷിക്കുന്നു സംയോജിതത്തെക്കുറിച്ച് ഞങ്ങൾ കുറച്ചുകൂടി സംസാരിക്കും അടുത്ത പ്രഭാഷണത്തിലെ ചക്രം അവിടെ മറ്റ് ചിലതരം സംയോജനങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതുവരെ നിങ്ങൾ പ്രഭാഷണം പരിഷ്ക്കരിച്ച് പ്രസക്തമായ കുറച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുക